അവസാന വീഡിയോയിൽ നമ്മൾ കോഷ്യന്റ് വളയങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാന സിദ്ധാന്തം പരിശോധിച്ചു നമ്മൾക്ക് അവിടെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് വളയ ഹോമോമോർഫിസത്തിന്റെ ഇമേജ് ആയിരുന്നു അത് വളരെ എളുപ്പമുള്ള ഒരു ഉപവിഭാഗമാണ് രണ്ടാം ഭാഗത്തെ ആദ്യത്തെ ഐസോമോർഫിസ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു അത് പറയുന്നത് നിങ്ങൾക്ക് R മുതൽ S വരെ ഒരു വളയഹോ മോമോർഫിസം ഉണ്ടെങ്കിൽ അത് ഒരു ഓൺടു ഹോമോമോർഫിസമാണ് അതിനാൽ R മോഡ് കേർണൽ ഫൈ എന്നത് S ന് ഐസോമോർഫിക് ആണ് കൂടാതെ സിദ്ധാന്തത്തിന്റെ മൂന്നാമത്തെ ഭാഗം കേർണൽ അടങ്ങിയിട്ടുള്ള R റിംഗിലെ ഐഡിയലുകളും S റിംഗിലെ ഐഡിയലുകളും തമ്മിൽ ഉള്ള ഒരു ബൈജക്ടീവ് കറസ്പോണ്ടൻസ് ആണ് അതിനാൽ മുമ്പത്തെ സിദ്ധാന്തത്തിന്റെ പ്രയോഗംവ്യക്തമാക്കുന്നതിന് ഈ വീഡിയോയിൽ ചില ഉദാഹരണങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു R മോഡ് x നെക്കുറിച്ച് കുറച്ച് വീഡിയോകൾ മുമ്പ് ഞാൻ ചെയ്ത ഉദാഹരണത്തിൽ നിന്ന് ആരംഭിക്കാം അതിനാൽ ഈ രണ്ട് വളയങ്ങൾക്കിടയിൽ ഒരു ഐസോമോർഫിസം ഉണ്ടെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച കാര്യം ഓർക്കുക അതിനാൽ ഇന്നും ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു പ്രധാന ഐസോമോർ ഫിസമാണെന്ന് തെളിയിക്കട്ടെ ഈ ഐസോമോറിസം നിങ്ങൾ മനസിലാക്കുന്നുവെങ്കിൽ റിംഗ് തിയറിയെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണിത് എന്നാൽ ഇത് മറ്റൊരു രീതിയിൽ തെളിയിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉദാഹരണം ഉപയോഗിക്കാൻ പോകുന്നു പക്ഷേ ഞാൻ ഇത് പരിഹരിച്ചിട്ടില്ല പക്ഷേ ഇതിന്റെ ഉത്തരം ഞാൻ നേരത്തെ ചെയ്ത മറ്റൊരു സിദ്ധാന്തത്തിന് സമാനമാണ് K ഒരു ഫീൽഡായിരിക്കട്ടെ ഓർക്കുക ഒരു ഫീൽഡ് ഒരു റിംഗാണ് അവിടെ പൂജ്യമല്ലാത്ത എല്ലാ ഘടകങ്ങളും ഒരു യൂണിറ്റാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതിന് ഒരു ഗുണിത വിപരീതമുണ്ട് K ന്റെ ഒരു ഐഡിയൽ ആണ് I എന്ന് നമുക്ക് പരിഗണിക്കാം K എല്ലായ്പ്പോഴും ഒരു വേരിയബിളിൽ ഉള്ള K ന് മുകളിലെ പോളിനോമിയൽ റിംഗിനെ സൂചിപ്പിക്കുന്നു അതിനാൽ I K ന്റെ ഒരു ഐഡിയലാണ് അപ്പോൾ k ൽ ഒരു മോണിക് പോളിനോമിയൽ f നിലവിലുണ്ട് എന്താണ് മോണിക് മോണിക് എന്നാൽ അതിന്റെ പ്രധാന ഗുണകം 1 എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് 10 ഡിഗ്രിയുടെ പോളിനോമിയൽ ആണെങ്കിൽ അതായത് x ന്റെ ഏറ്റവും വലിയ ശക്തിയാണ് x പവർ 10 അവിടെ നിങ്ങൾ കാണുന്ന x പവർ 10 എന്നത് 1 ആണ് അവിടെ ഒരു മോണിക് പോളിനോമിയൽ f നിലവിലുണ്ട് അതായത് I എന്നത് f സൃഷ്ടിച്ച ഐഡിയലിന് തുല്യമാണ് അതിനാൽ ഇതിനുമുമ്പ് ഞാൻ ഉപയോഗിച്ച ഈ നൊട്ടേഷൻറെ അർത്ഥം ഇത് പൂർണ്ണസംഖ്യകളുടെ വലയത്തെ അർത്ഥമാക്കുന്നു എന്നാണ് കാരണം നിങ്ങൾ 2 ന് ചുറ്റും ബ്രാക്കറ്റുകൾ ഇടുകയാണെങ്കിൽ അതിനർത്ഥം ഇത് 2 കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഐഡിയലാണ് അതായത് ആ സെറ്റിന്റെ എല്ലാ ഘടകങ്ങളും 2 ന്റെ ഗുണിതമാണ് ഇവിടെയും ഇത് തന്നെയാണ് ഇതിനർത്ഥം I ന്റെ എല്ലാ ഘടകങ്ങളും f ന്റെ ഗുണിതമാണ് അതിനർത്ഥം ഇത് g f എന്ന രൂപത്തിലാണ് ഇവിടെ g എന്നത് k ന്റെ ആർബിട്രറി ഘടകമാണ് മനസ്സിലായോ അതിനാൽ ഒരൊറ്റ ഘടകം സൃഷ്ടിച്ച ഒരു ഐഡിയൽ നിർവചനം അനുസരിച്ച് മറ്റ് ഏതെങ്കിലും ഘടകത്തിന്റെ ഇരട്ടിയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് ഞാൻ തെളിയിച്ച പ്രസ്താവന പോലെയാണ് പൂർണ്ണസംഖ്യകളുടെ വലയത്തിലെ Z ലെ ഓരോ ഐഡിയലും nZ അല്ലെങ്കിൽ മറ്റൊരുതരത്തിൽ പറഞ്ഞാൽ ചില നെഗറ്റീവ് ഇതര സംഖ്യകളിൽ രൂപത്തിലാണ് ഇത് ഓർക്കുന്നുണ്ടോ കുറച്ച് വീഡിയോകൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ ഇത് തെളിയിച്ചിട്ടുണ്ട് ഇവിടെ പ്രധാന ആശയം വിഭജന അൽഗോരിതം ആയിരുന്നു അതായത് വിഭജനം അതിനാൽ നമ്മൾ ഒരു ഐഡിയലിൽ നിന്ന് ആരംഭിച്ചു അത് 0 ഐഡിയലാണെങ്കിൽ അത് ഇതിനകം 0 മടങ്ങ് Z ആണ് അത് 0 ഐഡിയലല്ലെങ്കിൽ അതിൽ പൂജ്യമല്ലാത്ത സംഖ്യ അടങ്ങിയിരിക്കണം അതായത് അതിൽ പോസിറ്റീവ് സംഖ്യ അടങ്ങിയിരിക്കണം കാരണം ഐഡിയലിൽ വിപരീതം എടുക്കുന്നില്ല അതിനാൽ അതിൽ പൂജ്യമല്ലാത്ത ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവ് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് എന്നിട്ട് നമ്മൾ I ൻറെ ഏറ്റവും കുറഞ്ഞ പോസിറ്റീവ് ഘടകം എടുക്കുകയും പിന്നീട് ഡിവിഷൻ അൽഗോരിതം ഉപയോഗിക്കുകയും എല്ലാം അതിന്റെ ഗുണിതമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു ഈ ഏറ്റവും കുറഞ്ഞ ഘടകത്താൽ നമുക്ക് വിഭജിക്കാനാകുമെന്നതിനാൽ അവശേഷിക്കുന്നത് ഈ ഘടകത്തേക്കാൾ തീർച്ചയായും കുറവാണ് അതിനാൽ അത് പോസിറ്റീവ് ആണെങ്കിൽ അത് കഴിയില്ല അതിനാൽ അത് 0 ആയിരിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവശേഷിക്കുന്നത് 0 ആണ് അതേ തെളിവ് k ലും പ്രാവർത്തികമാണ് കാരണം നമുക്ക് പൂർണ്ണസംഖ്യകളെ വിഭജിക്കാൻ കഴിയുന്നതുപോലെ പോളിനോമിയലുകളെയും വിഭജിക്കാം പോളിനോമിയലുകളെ വിഭജിക്കുന്നതിന് ഒരു പോളിനോമിയൽ എഫ് കൊണ്ട് വിഭജിക്കണമെങ്കിൽ എഫ് ന്റെ മുൻനിര ഗുണകം ഒരു യൂണിറ്റ് ആയിരിക്കണം എന്നാൽ ഒരു ഫീൽഡിൽ പൂജ്യമല്ലാത്ത ഓരോ ഘടകവും ഒരു യൂണിറ്റാണ് മുൻനിര ഗുണകം നിർവചനം അനുസരിച്ച് പൂജ്യമല്ല അതിനാൽ നമുക്ക് എല്ലായ്പ്പോഴും ഏതെങ്കിലും പോളിനോമിയൽ പൂജ്യം അല്ലാത്ത ഏതെങ്കിലും പോളിനോമിയൽ കൊണ്ട് വിഭജിക്കാം f പൂജ്യമല്ലാത്ത പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് ആ പോളിനോമിയൽ കൊണ്ട് ഒരു പോളിനോമിയൽ റിംഗിലോ ഫീൽഡിലോ വിഭജിക്കാം അതുകൊണ്ടാണ് R ൽ പൊതുവായി വിഭജിക്കാൻ കഴിയാത്തത് കൂടാതെ R ൻറെ അത്തരമൊരു പ്രസ്താവന നമുക്കില്ല ഇവിടെ R എന്നത് ആർബിട്രറി വലയമാണ് ഇത് ശരിയായി ഇരിക്കുന്നത് K ഒരു ഫീൽഡ് ആണെങ്കിൽ മാത്രമാണ് K എന്നത് ഒരു വളയം ആണെങ്കിൽ ഇത് ശരിയല്ല നമ്മൾ പിന്നീടുള്ള ഉദാഹരണങ്ങളിൽ ഇത് ചെയ്യും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ കുറഞ്ഞ പോസിറ്റീവ് ഘടകത്തിന്റെ അനലോഗ് എന്തായിരിക്കും K പൂജ്യമല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യില്ല ഇത് നിങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് കൃത്യമായി സമാനമാണ് ഇത് 0 ആണെങ്കിൽ നിങ്ങൾ ഒരു ഐഡിയൽ എടുക്കുക കാരണം നിങ്ങൾ 0 പോളിനോമിയലിൽ ഇത് ചെയ്തതാണ് ഇത് 0 അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡിഗ്രി ഉള്ള പോളിനോമിയൽ പൂജ്യമല്ലാത്ത പോളിനോമിയൽ എടുക്കുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മോണിക് എടുക്കുക ഏറ്റവും കുറഞ്ഞ ഡിഗ്രി ഉള്ള മോണിക് പോളിനോമിയൽ എടുക്കുക എന്നിട്ട് അതിനെ വിഭജിക്കുക ഇതിൻറെ അവശേഷിക്കുന്ന ഘടകം 0 ആയിരിക്കും അതിനാൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പിന്നീടുള്ള ഒരു പ്രശ്ന സെഷനിൽ ഞാൻ ഇത് വിശദമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കും അതിനാൽ ഞാൻ ഇത് ഉപയോഗിക്കാൻ പോകുന്നു Rx ൽ പ്രത്യേകിച്ചും R എന്നത് യഥാർത്ഥ സംഖ്യകളുടെ ഫീൽഡാണെങ്കിൽ എല്ലാ ഐഡിയലുകളും ഒരൊറ്റ ഘടകത്താൽ സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ നമുക്ക് ഇത് പ്രയോഗിക്കാം അതിനാൽ റിംഗ് ഹോമോമോർഫിസം പരിഗണിക്കുക മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ തെളിയിച്ച പ്രസ്താവനയെ ഞാൻ വീണ്ടും തെളിയിക്കാൻ പോകുന്നു അതിനാൽ R മുതൽ C വരെയുള്ള റിംഗ് ഹോമോമോഫിസം പരിഗണിക്കുക അത് f മുതൽ f i വരെ എടുക്കുന്നു അതിനാൽ i എല്ലായ്പ്പോഴും മൈനസ് 1 ന്റെ വർഗ്ഗമൂലമാണ് അതായത് സാങ്കൽപ്പിക സംഖ്യ അപ്പോൾ എന്താണ് ഈ ഫംഗ്ഷൻ f fi ലേക്ക് പോകുന്നു എളുപ്പത്തിൽ പരിശോധിക്കുമ്പോൾ ഇതൊരു റിംഗ് ഹോമോമോർഫിസം ആണ് റിംഗ് ഹോമോമോഫിസങ്ങൾ നിർവചിക്കുമ്പോൾ ഞാൻ അത്തരം ഉദാഹരണങ്ങൾ ചർച്ച ചെയ്തതായി കരുതുന്നു അതിനാൽ ഇത് റിംഗ് ഹോമോമോർഫിസമാണ് ഞാൻ ഇത് വിശദീകരിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥ ഗുണകങ്ങളോടുകൂടിയ ഒരു പോളിനോമിയൽ എടുക്കുക നിങ്ങൾ അതിനെ സാങ്കൽപ്പിക സംഖ്യ i കൊണ്ട് വിലയിരുത്തുക നിങ്ങൾ x നെ i കൊണ്ട് തുല്യമാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സങ്കീർണ്ണ സംഖ്യ ലഭിക്കും ഇത് സി യുടെ ഒരു ഘടകമാണ് അതിനാൽ ഇത് ഒരു റിംഗ് ഹോമോമോർഫിസമാണ് ഇതിന്റെ കേർണൽ എന്താണ് ഫൈയുടെ കേർണൽ എന്താണ് അതാണ് ചോദ്യം x എന്ന പോളിനോമിയൽ റിംഗിലെ എല്ലാ ഘടകങ്ങളും കേർണൽ ഫൈയാണ് അതിനാൽ ഈ f ഒരു R ൽ അതിനാൽ f 0 ആണ് അതിനാൽ ഇപ്പോൾ എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ച പ്രവർത്തനം കാരണം ഒരു കേർണൽ ഫൈയിലെ എല്ലാ ഐഡിയലുകളും a ആണ് R എന്ന പോളിനോമിയൽ റിംഗിലെ എല്ലാ ഐഡിയലുകളും ഒരൊറ്റ ഘടകത്താൽ സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ മുകളിലുള്ള പ്രവർത്തനത്തിലുള്ളത് R ൽ f ന്റെ ഒരു മോണിക് പോളിനോമിയൽ ഉണ്ട് അതായത് f സൃഷ്ടിച്ച ഐഡിയലാണ് കേർണൽ ഫൈ എന്നാണ് അതിനാൽ കേർണൽ ഫൈ നിർണ്ണയിക്കാൻ എനിക്ക് f കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് f നായി തിരയാം അതിനാൽ കേർണലിന്റെ ചില ഘടകങ്ങൾ എന്തൊക്കെയാണ് കേർണലിൽ x സ്ക്വയർ പ്ലസ് 1 എന്നതിന്റെ നിർവചനം നിങ്ങൾക്ക് തീർച്ചയായും അറിയാം കാരണം i സ്ക്വയർ പ്ലസ് 1 0 ആണ് അതിനാൽ നിങ്ങൾ x സ്ക്വയേർഡ് പ്ലസ് 1 എടുത്ത് അതിൽ x ന് പകരമായി i മാറ്റിയാൽ അത് 0 ആയി മാറുന്നു x സ്ക്വയർ പ്ലസ് 1 കേർണലാണ് അതിനാൽ ഇതിനർത്ഥം കേർണൽ f സൃഷ്ടിക്കുന്നത് f ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ f g ചിലതിന് x സ്ക്വയർ പ്ലസ് 1 ആണ് ഇത് f സൃഷ്ടിച്ച ഐഡിയലിന്റെ നിർവചനമാണെന്ന് ഓർക്കുക ഐഡിയലിന്റെ ഓരോ ഘടകങ്ങളും f ന്റെ ഗുണിതം ആണ് x സ്ക്വയർഡ് പ്ലസ് 1 കേർണലിന്റെ ഒരു ഘടകമാണ് അതിനാൽ ഇത് f ന്റെ ഗുണിതം ആണ് ഇതിൻറെ ഡിഗ്രി 2 ആണ് അതിനാൽ f ന്റെ ഡിഗ്രി 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആണ് അതിനർത്ഥം ഡിഗ്രി 2 ഉള്ള പോളിനോമിയലിനെ വിഭജിക്കുന്ന ഒരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിന്റെ ഡിഗ്രി നിർബന്ധമായും അതിനേക്കാൾ കുറവോ അല്ലെങ്കിൽ തുല്യമോ ആകുന്നു കാരണം ഗുണിത ഡിഗ്രി എന്നാൽ f ന്റെ ഡിഗ്രിയും g ന്റെ ഡിഗ്രിയും കൂട്ടിയാൽ കിട്ടുന്ന ഡിഗ്രി ആണ് അത് ഡിഗ്രി 2 ആണ് അതിനാൽ f ന്റെ ഡിഗ്രി 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആണ് അതിനാൽ ഇപ്പോൾ നമുക്ക് സാധ്യതകൾ നോക്കാം ഡിഗ്രി f 0 ആകാമോ ഇതിന്റെ അർത്ഥമെന്താണെന്ന് ഓർക്കുന്നോ f ന്റെ ഡിഗ്രി 0 എന്നാൽ f ഒരു സ്ഥിരാങ്കമാണ് എന്നാണ് എന്നാൽ f ന്റെ ф എന്താണ് അതിനാൽ f ഒരു സ്ഥിരാങ്കമാണ് നമുക്ക് ഇതിനെ R ൽ ഉള്ള a എന്ന് വിളിക്കാം ഇത് ഒരു 0 ഡിഗ്രി പോളിനോമിയൽ എന്നാൽ ഇത് ഒരു സ്ഥിരാങ്കമായ a ആണെന്നാണ് എന്നാൽ ഇത് ഒരു വെറും a മാത്രമാണ് കാരണം x ന് പകരമായി ഒരു സ്ഥിരാങ്ക പോളിനോമിയൽ കൊടുക്കുന്നതിൽ അർത്ഥമില്ല ф ഫംഗ്ഷന് കീഴിലുള്ള ഒരു സ്ഥിരാങ്കം സ്ഥിരാങ്കത്തിലേക്ക് തന്നെ പോകുന്നു അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ a a യിലേക്ക് തന്നെ പോകുന്നു എന്നാൽ f കേർണലിനെ ഉണ്ടാക്കിയതിനാൽ പ്രത്യേകിച്ചും f കേർണലിന്റെ ф ഓഫ് f അതായത് 0 ആണ് അതിനർത്ഥം a 0 ആണ് f 0 എന്നാൽ ഇപ്പോൾ ഇത് ഒരു പ്രശ്നമാണ് കാരണം f 0 ആണെങ്കിൽ x1 എങ്ങനെയാണ് 0 ന്റെ ഗുണിതം x സ്ക്വയർ പ്ലസ് 1 ആണെങ്കിൽ f x1 ന്റെ ഗുണിതം 0 ആവാൻ കഴിയില്ല കാരണം തീർച്ചയായും 0 ന്റെ ഏത് ഗുണിതവും 0 ആണ് അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 0 എന്നത് f ന്റെ സാധ്യമായ ഒരു ഡിഗ്രിയല്ല അതിനാൽ തെളിവ് വ്യക്തമാണ് അപ്പോൾ f ന്റെ ഡിഗ്രി 0 ആകാൻ പാടില്ല ഇപ്പോൾ നമുക്ക് f ന്റെ ഡിഗ്രി 1 ആണെന്ന് നോക്കാം ഇത് സാധ്യമാകുമോ പരാമർശം അനുസരിച്ച് f ഒരു മോണിക് പോളിനോമിയാലാണെന്ന് ഓർക്കുക ഒരു മോണിക് പോളിനോമിയൽ f ഉണ്ടെങ്കിൽ കേർണൽ ഫൈയെല്ലാം f ന്റെ ഗുണിതങ്ങളാണ് അതിനാൽ f മോണിക് ആണെങ്കിൽ അതിനർത്ഥം f ൻറെ ഡിഗ്രി 1 ഉം മോണിക് എന്നാൽ f x a എന്ന രൂപത്തിലുമാണ് എന്നാണ് എന്താണ് ഡിഗ്രി 1 പോളിനോമിയലുകൾ X ന്റെ ഏറ്റവും ഉയർന്ന ഡിഗ്രി 1 ആണ് അതിനാൽ xa x a എന്നാൽ പൊതുവേ നിങ്ങൾക്ക് കോഫിഷ്യന്റ് ഉണ്ടായിരിക്കാം പക്ഷേ അതിന്റെ മോണിക് കോഫിഷ്യന്റ് 1 ആയതിനാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ f കേർണലിലാണെന്ന് ഓർക്കുക അതിനാൽ ഇത് x a കേർണലിൽ ആണെന്ന് സൂചിപ്പിക്കുന്നു പക്ഷേ അതിനർത്ഥം i a കേർണലിൽ ആണെന്നാണ് അതിനാൽ i a 0 യ്ക്ക് തുല്യമാണ് കാരണം ഫൈയ്ക്ക് കീഴിലുള്ള x a മാപ് ചെയ്തിട്ടുണ്ട് അതിനാൽ ia ആണ് പക്ഷേ ഇത് അസംബന്ധമാണ് കാരണം എന്താണ് ഇത് അസംബന്ധമായതിന് കാരണം a ഒരു യഥാർത്ഥ സംഖ്യയാണ് i ഒരു സാങ്കൽപ്പിക സംഖ്യയാണ് i ഒരു യഥാർത്ഥ സംഖ്യയല്ല അതിനാൽ ഒരു യഥാർത്ഥ സംഖ്യ i ന് തുല്യമാകരുത് അതിനാൽ 1 എന്നതും ഒരു സാധ്യതയല്ല അതിനാൽ f ന്റെ ഡിഗ്രി രണ്ടായിരിക്കണം അതായത് f x സ്ക്വയർ പ്ലസ് 1 ന് തുല്യമാണ് എന്നാൽ പിന്നീട് x ന്റെ ഡിഗ്രി f ന് തുല്യമാണ് കാരണം രണ്ടും മോണിക് ആയതിനാൽ ഇത് x സ്ക്വയർ പ്ലസ് 1 നെ വിഭജിക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് അതായത് ഇത് x സ്ക്വയർ പ്ലസ് 1 ൻറെയും ഒരു സ്ഥിരാങ്കത്തിൻറെയും ഗുണിതം ആയിരിക്കണം ഇവിടെ f ൻറെ ഡിഗ്രി g ൻറെ ഡിഗ്രി എന്നത് 2 ആണെന്ന് ഓർക്കുക അതിനാൽ f ൻറെ ഡിഗ്രി 0 എന്നാൽ g യുടെ ഡിഗ്രി 2 എന്നാണ് f ൻറെ ഡിഗ്രി 1 ആണെങ്കിൽ g യുടെ ഡിഗ്രി 1 ആണ് എന്നാൽ f ൻറെ ഡിഗ്രി 2 ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്ഥാപിച്ചതുപോലെ g യുടെ ഡിഗ്രി 0 ആണ് അതായത് ഒരു സ്ഥിരാങ്കമാണ് എന്നാൽ f ഉം x സ്ക്വയർ പ്ലസ് 1 ഉം ഒരു മോണിക് പോളിനോമിയൽ ആണ് അതിനാൽ g എന്നത് 1 ആയിരിക്കണം അതിനാൽ f എന്നത് x സ്ക്വയർ പ്ലസ് 1 ആണ് അതിനർത്ഥം ഫൈയുടെ കേർണൽ കൃത്യമായി x സ്ക്വയർ പ്ലസ് 1 ആണ് അതിനാൽ ഇപ്പോൾ ഐസോമോർഫിസം സിദ്ധാന്തം പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ R മോഡ് x എന്നാണ് അതിനാൽ ഞാൻ ഇത് ഇവിടെ എഴുതാം പക്ഷേ നമുക്ക് മറ്റൊരു വസ്തുത കൂടി പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ മുമ്പത്തെ വീഡിയോയിൽ നിന്നുള്ള ആദ്യത്തെ ഐസോമോർഫിസം സിദ്ധാന്തം പറയുന്നു നിങ്ങൾക്ക് R മുതൽ S വരെ ഒരു റിംഗ് ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ R മോഡ് കേർണൽ ഫൈ S ന് ഐസോമോർഫിക് ആണ് എന്നിരുന്നാലും ഇത് ഓൺടു ആയിരിക്കണം എന്ന് ഓർക്കുക അതിനാൽ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് R മോഡ് x മുതൽ C വരെ ഉണ്ട് ф യുടെ കേർണൽ x സ്ക്വയേർഡ് പ്ലസ് 1 ആണ് അതിനാൽ R മോഡ് x കേർണൽ ഇമേജിന് ഐസോമോർഫിക് ആണ് അതിനാൽ മറ്റൊരു വിധത്തിൽ നമുക്കിത് പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ എനിക്ക് ഇതുവരെയും ഇത് പറയാൻ കഴിയില്ല എനിക്ക് ф ഓൺടൂ ആണോയെന്ന് പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ ഞാൻ ഇത് അപ്രാധാന്യം ആണെന്ന് പറയട്ടെ അതിനാൽ ഞാൻ ആദ്യം പറയട്ടെ ഫൈ ഓൺടു ആണെന്ന് ഈ കാണാതായ ഫൈ ഇവിടെയുണ്ട് അത് ഓൺടു ആണ് ഇത് ഓൺടൂ ആണെങ്കിൽ ആദ്യത്തെ ഐസോമോർഫിസം സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് ഇതും ഉണ്ട് പക്ഷേ എന്തിനാണ് ഫൈ ഓൺടു ആയിരിക്കുന്നത് അതിനാൽ നമുക്ക് സങ്കീർണ്ണ സംഖ്യകളുടെ ഒരു ആർബിട്രറി ഘടകം aib എടുക്കാം തുടർന്ന് ഓർക്കുക അതിനർത്ഥം ab എന്നത് യഥാർത്ഥ സംഖ്യകളാണെങ്കിൽ axb യുടെ ф aib ആണ് R ലെ axb ഒരു പോളിനോമിയലാണെന്ന് ഓർമ്മിക്കുക കാരണം ab യഥാർത്ഥ സംഖ്യകളും അതിന്റെ ഇമേജുകൾ കിട്ടുന്നത് x i ന് തുല്യം ആകുമ്പോഴാണ് നിങ്ങൾക്ക് aib ലഭിക്കും അതിനാൽ ф ഓൺടു ആണ് അതിനാൽ R x മുതൽ C വരെ ф ഓൺടു ആണ് അതിന്റെ കേർണൽ x സ്ക്വയർ പ്ലസ് 1 ആണ് അതിനാൽ നമ്മൾ Rx മോഡ് x സ്ക്വയർ പ്ലസ് 1 സി എന്ന് നിഗമനം ചെയ്യുന്നു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത വളയങ്ങളുടെ ഈ സുപ്രധാന ഐസോമോറിസത്തിന്റെ മറ്റൊരു തെളിവാണിത് പക്ഷേ ഇപ്പോൾ ഇത് ആദ്യത്തെ ഐസോമോർഫിസം സിദ്ധാന്തമായി ഉപയോഗിക്കുന്നു അപ്പോൾ ഇതാണ് ആദ്യ ഐസോമോർഫിസ സിദ്ധാന്തത്തിൻറെ ഒരു പ്രയോഗം നമുക്കീ സിദ്ധാന്തത്തിൻറെ അവസാന ഭാഗം അവസാന വീഡിയോയിൽ പ്രയോഗിക്കാം അതിനാൽ കറസ്പോണ്ടൻസ് സിദ്ധാന്തം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പ്രയോഗിക്കാം കറസ്പോണ്ടൻസ് സിദ്ധാന്തം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ നമുക്ക് R x മുതൽ C വരെ ഉണ്ട് അത് നമ്മൾ ഇതിനകം തന്നെ സ്ഥാപിച്ചു R x mod x സ്ക്വയർ പ്ലസ് 1 സി യ്ക്ക് ഐസോമോഫിക് ആണ് അതിനാൽ ഇത് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു കറസ്പോണ്ടൻസ് സിദ്ധാന്തം എന്താണ് പറയുന്നത് കേർണൽ ഫൈ അടങ്ങിയിരിക്കുന്ന R x ലെ ഐഡിയലുകൾ സിയിലെ ഐഡിയലുമായി ബൈജക്ടീവ് കറസ്പോണ്ടൻസിലാണ് എന്നാണ് അതിനാൽ നമുക്ക് ഇത് വിശദമായി എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് 1 അടങ്ങിയിരിക്കുന്ന Rx ലെ ഐഡിയലുകൾ ഐഡിയലുകമായി ബൈജക്ടീവ് കറസ്പോണ്ടൻസിലാണ് ഇപ്പോൾ ഇതാണ് കറസ്പോണ്ടൻസ് സിദ്ധാന്തം പറയുന്നത് എന്നാൽ സി യുടെ ഐഡിയലുകൾ എന്താണ് കൃത്യമായി രണ്ട് ഐഡിയലുകൾ ഉണ്ട് അതിനാൽ സി ഒരു ഫീൽഡ് ആണെന്ന് ഓർമ്മിക്കുക ഏത് ഫീൽഡും കൃത്യമായി രണ്ട് ഐഡിയലുകൾ ആണ് അതിനാൽ 0 ഐഡിയൽ സി എന്നുവിളിക്കാം അതിനാൽ ഇവിടെ രണ്ട് ഐഡിയലുകൾ മാത്രമേയുള്ളൂ അതിനാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 അടങ്ങിയിരിക്കുന്ന Rx ലെ ഐഡിയലുകൾ എന്ന നിഗമനത്തിൽ എത്താം ഈ സെറ്റിൽ രണ്ട് ഘടകങ്ങൾ ഉള്ളതിനാൽ ഇവിടെ രണ്ട് ഐഡിയകളുണ്ട് ഈ സെറ്റിനും ഈ സെറ്റിനുമിടയിലുള്ള ബൈജെക്ഷൻ വഴി ഈ സെറ്റിന് രണ്ട് ഘടകങ്ങളുണ്ട് എന്താണ് ഈ സെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 അടങ്ങിയിരിക്കുന്ന Rx ലെ ഐഡിയലുകൾ ആണ് അതിനാൽ എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 അടങ്ങിയിരിക്കുന്ന രണ്ട് ഐഡിയലുകൾ മാത്രമേ ഉള്ളൂ കൂടാതെ എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 തന്നെ ഉൾക്കൊള്ളുന്ന രണ്ട് വ്യക്തമായ ഐഡിയലുകൾ ഉണ്ട് ആർ എക്സിന് മറ്റ് ഐഡിയലുകളൊന്നുമില്ല ഇത് ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റാണ് അതിനാൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് ഐഡിയൽ x സ്ക്വയേർഡ് പ്ലസ് I ഉണ്ടെങ്കിൽ x സ്ക്വയേർഡ് പ്ലസ് 1 ഐഡിയൽ I ൽ അടങ്ങിയിരിക്കുന്നു അത് R x ന് ഐഡിയൽ ആണ് അതിനർത്ഥം I x സ്ക്വയേർഡ് പ്ലസ് 1 അല്ലെങ്കിൽ R x ആണ് എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 നും ആർ എക്സ് നും ഇടയിൽ ഒരു ഐഡിയലുകളുമില്ല അത് രണ്ടിലും വ്യത്യസ്തമാണ് രണ്ട് ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആശയങ്ങളൊന്നുമില്ല അതിനാൽ അത്തരം ഐഡിയലുകളെ മാക്സിമൽ ഐഡിയലുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ x സ്ക്വയേർഡ് പ്ലസ് 1 എന്നത് ഒരു പരമാവധി മാക്സിമൽ ഐഡിയലാണ് അതിനാൽ ഞാൻ ഇത് പിന്നീട് നിർവചിക്കും എന്നാൽ ഇത് നിങ്ങൾക്ക് ഇതാണ് മാക്സിമൽ ഐഡിയൽ എന്ന് വിളിക്കപ്പെടുന്നത് എന്നുള്ള ഒരു പ്രിവ്യൂ നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടെ മാക്സിമൽ ഐഡിയലുകൾ ഐഡിയലുകളാണ് അവയ്ക്ക് ഈ പ്രോപ്പർട്ടി ഉണ്ട് മുഴുവൻ റിംഗും അതേ ഐഡിയലും ഉൾക്കൊള്ളുന്നതല്ലാതുള്ള ഐഡിയലുകളൊന്നും ഇല്ല അതിനാൽ ഇപ്പോൾ ഇത് കറസ്പോണ്ടൻസ് സിദ്ധാന്തം ഉപയോഗിച്ചുള്ള ഉപയോഗപ്രദമായ ഒരു ഫലമാണ് അതിനാൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു റിംഗ് ഹോമോമോർഫിസംവും റിംഗ് ഹോമോമോർഫിസത്തിന്റെ കേർണലുകളും മനസിലാക്കാൻ ഈ ഉദാഹരണങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു അതിനാൽ ഇനിപ്പറയുന്നവ ചെയ്യാം ഇത് മറ്റൊരു ഉദാഹരണമാണ് അതിനാൽ കറസ്പോണ്ടൻസ് സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഉദാഹരണം നമുക്ക് ചെയ്യാം അതിനാൽ ചോദ്യം Ct t സ്ക്വയർ പ്ലസ് 1 റിംഗിന്റെ ഐഡിയലുകൾ നിർണയിക്കുകയാണ് ഇത് ബൈജക്ടീവ് കറസ്പോണ്ടൻസ് സിദ്ധാന്തത്തിന്റെ ഒരു തരം പ്രയോഗമാണ് പക്ഷേ ഇത് ശരിയായി സജ്ജീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ റിംഗിനെ R എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ റിംഗ് എന്താണെന്ന് നമുക്ക് അറിയില്ല ഈ റിംഗ് എന്താണെന്ന് അറിയാൻ എനിക്ക് താൽപ്പര്യമില്ല വാസ്തവത്തിൽ ഈ റിംഗ് അറിയുകയെന്നതിന്റെ അർത്ഥമെന്താണെന്ന് എനിക്കറിയില്ല ചോദ്യം റിംഗിന്റെ ഐഡിയലുകൾ നിർണ്ണയിക്കുക മാത്രമാണ് അതിനാൽ കറസ്പോണ്ടൻസ് സിദ്ധാന്തം പറയുന്നത് നിങ്ങൾക്ക് ഒരു റിംഗ് ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ അത് വളയങ്ങളുടെ ഐസോമോർഫിസംത്തിലേക്ക് നയിക്കുന്നു കൂടാതെ കോഷ്യന്റ് റിംഗ് കോ ഡൊമെയ്ൻ റിംഗ് തുടർന്ന് ഈ രണ്ട് വളയങ്ങളിൽ ഉള്ള കറസ്പോണ്ടൻസ് ഐഡിയലുകളിലേക്കും നയിക്കുന്നു അതിനാൽ ഇവിടെ റിംഗ് ഹോമോമോർഫിസം പരിഗണിക്കുക R ഇതിനകം തന്നെ ഒരു കോഷ്യന്റ് റിംഗായി നൽകിയിരിക്കുന്നു അതിനാൽ ഇനിപ്പറയുന്ന Ct മുതൽ ആർ വരെ ഉള്ള റിംഗ് ഹോമോമോർഫിസം എനിക്ക് നിർവചിക്കാൻ കഴിയും എന്താണ് R R എന്നത് Ct മോഡുലോ ടി സ്ക്വയേർഡ് പ്ലസ് 1 ആണ് എന്താണ് ഈ ഫംഗ്ഷൻ ഞാൻ അത് f ലേക്ക് അയയ്ക്കും ടി ബാർ എല്ലായ്പ്പോഴും ടി പ്രതിനിധീകരിക്കുന്ന കോസെറ്റിനെ സൂചിപ്പിക്കുന്നുവെന്ന് ഓർക്കുക പൊതുവേ ബാർ കോഷ്യന്റ് വലയത്തിലെ കോസെറ്റുകളെ സൂചിപ്പിക്കുന്നതിനുള്ള ഒരു സൌകര്യമായ നൊട്ടേഷൻ ആണ് അതിനാൽ ഞാൻ ഒരു ഘടകം എടുന്നു ടി പോളിനോമിയൽ ഞാൻ ടി ബാർ ഉപയോഗിച്ച് ടി മാറ്റി എഴുതുന്നു മറ്റെല്ലാ കാര്യങ്ങളും അതുപോലെതന്നെ ആണ് അതിനാൽ ഇത് നിർവചനം അനുസരിച്ച് R ന്റെ ഒരു ഘടകമാണ് അതിനാൽ ഇത് ഒരു പ്രവർത്തനമാണ് ഫൈ ഓൺടു ആണ് ഇത് വ്യക്തമാണ് കാരണം ടി ബാർ ഇമേജിലാണുള്ളത് കാരണം ടി ടി ബാറിലേക്ക് പോകുന്നു ഇവിടെ ഉള്ളതെന്തും ടി ബാറിലെ ഒരു പോളിനോമിയലാണ് അതിനാൽ ഇത് ഇമേജിലും കേർണൽ ഫൈ കൃത്യമായി ടി സ്ക്വയർ പ്ലസ് 1 ആണ് അതിനാൽ R Ct മോഡ് ടി സ്ക്വയേർഡ് പ്ലസ് 1 ലേക്ക് ഐസോമോഫിക് ആക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ ഇത് നിങ്ങൾക്ക് പരിശോധിക്കാനായി ഞാൻ വിടുന്നു ഇത് എളുപ്പമാണ് ഇതൊരു പ്രവർത്തനമാണ് പക്ഷേ ഇത് എളുപ്പമാണ് സി ടിയിലെ എല്ലാ ഘടകങ്ങളും എല്ലാ ഐഡിയലുകളും ഒരൊറ്റ ഘടകത്താൽ സൃഷ്ടിക്കപ്പെടുന്നു എന്ന വസ്തുത വീണ്ടും ഉപയോഗിക്കുക കാരണം സി ഒരു ഫീൽഡ് ആണ് ടി സ്ക്വയർ പ്ലസ് 1 ഇതിന്റെ കേർണലിലാണ് കാരണം ടി സ്ക്വയേർഡ് പ്ലസ് 1 ടി ബാർ സ്ക്വയേർഡ് പ്ലസ് 1 ലേക്ക് പോകുന്നു പക്ഷേ ടി ബാർ സ്ക്വയർ പ്ലസ് 1 0 ആണ് ടി സ്ക്വയർ പ്ലസ് 1 കേർണലിലാണ് പക്ഷേ കേർണലിൽ ലീനിയർ പോളിനോമിയൽ ഇല്ലെന്ന് നിങ്ങൾ വാദിച്ചേക്കാം അതിനാൽ ഇത് അവസാന ഉദാഹരണത്തിലെന്നപോലെ ആണ് ഇത് നിങ്ങൾക്ക് ചെയ്യാനായി ഞാൻ വിടുന്നു അതിനാൽ ഇപ്പോൾ കറസ്പോണ്ടൻസ് സിദ്ധാന്തത്തിന്റെ ഉപസംഹാരം പറയുന്നത് കറസ്പോണ്ടൻസ് സിദ്ധാന്തം R ന്റെ ഐഡിയലുകൾ നൽകുന്നു അതാണ് നമുക്ക് കണ്ടെത്താൻ താൽപ്പര്യമുള്ളത് ടി സ്ക്വയേർഡ് പ്ലസ് 1 അടങ്ങിയിട്ടുള്ള സി ടി യുടെ ഐഡിയലുകമായി ബൈജക്ടീവ് കറസ്പോണ്ടൻസിലാണ് എന്നുള്ളത് ടി സ്ക്വയർ പ്ലസ് 1 സി യുടെ ഐഡിയലാണ് ടി മോഡ് ടി സ്ക്വയേർഡ് പ്ലസ് 1 സി ടി യുടെ ഐഡിയലാണ് അതിൽ ടി സ്ക്വയേർഡ് പ്ലസ് 1 അടങ്ങിയിരിക്കുന്നു അതിനാൽ R ന്റെ ഐഡിയലുകൾ നിർണ്ണയിക്കാൻ എനിക്ക് ടി സ്ക്വയർ പ്ലസ് 1 അടങ്ങിയിരിക്കുന്ന സി ടി യുടെ ഐഡിയലുകൾ നിർണ്ണയിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഇപ്പോൾ അത് ചെയ്യാം അതിനാൽ I R ൻറെ ഐഡിയൽ ആയിരിക്കട്ടെ ടി സ്ക്വയർ പ്ലസ് 1 Ct യിൽ അടങ്ങിയിരിക്കുന്നു ആദ്യം തന്നെ ശ്രദ്ധിക്കുക ടി സ്ക്വയർ പ്ലസ് 1 അടങ്ങുന്ന രണ്ട് വ്യക്തമായ ഐഡിയലുകൾ ഉണ്ട് ടി സ്ക്വയർ പ്ലസ് 1 ഉം സിടി ഉം അതിനാൽ ഇവ രണ്ട് ഐഡിയലുകളാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ മുകളിലുള്ള ഉദാഹരണത്തിലൂടെ സി ഒരു ഫീൽഡ് ആയതിനാൽ I യഥാർത്ഥത്തിൽ ft യിൽ നിന്നും ഉണ്ടായ ഐഡിയൽ ആണ് സി ടി യിൽ കുറച്ച് ടിക്ക് പകരം ft യാണ് എന്നാൽ ടി സ്ക്വയേർഡ് പ്ലസ് 1 I ൽ അടങ്ങിയിരിക്കുന്നു ഇതിനർത്ഥം ടി സ്ക്വയേർഡ് പ്ലസ് 1 നെ f g എന്ന് എഴുതാം Ct ഇൽ ഉള്ള ചില g കളിൽ മാത്രം ഇപ്പോൾ ft ടി സ്ക്വയർ പ്ലസ് 1 ടി സ്ക്വയർ പ്ലസ് 1 നെ വിഭജിക്കുന്ന പോളിനോമിയലുകൾ എന്തൊക്കെയാണ് അതിനാൽ ടി സ്ക്വയർ പ്ലസ് 1 നെ വിഭജിക്കുന്ന ft പോളിനോമിയലുകൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത്തരം നാല് പോളിനോമിയലുകൾ ഉണ്ട് അതിനാൽ തീർച്ചയായും 1 അതിനെ വിഭജിക്കുന്നുണ്ട് 1 x ടി സ്ക്വയേർഡ് പ്ലസ് 1 ടി സ്ക്വയേർഡ് പ്ലസ് 1 ആണ് അതിനാൽ f നുള്ള ഒരു സാധ്യത ഇവിടെയുള്ള എല്ലാ പോളിനോമിയലുകളുമാണ് രണ്ടാമത്തെ സാധ്യത തീർച്ചയായും ടി സ്ക്വയേർഡ് പ്ലസ് 1 ടി സ്ക്വയേർഡ് പ്ലസ് 1 ആണ് ഇത് 1 ഇൽ നിന്നുണ്ടായ ഐഡിയൽ ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ Ct അതിനാൽ ഇവിടെ f 1 ന് തുല്യമാണ് ഇവിടെ f ടി സ്ക്വയർ പ്ലസ് 1 ന് തുല്യമാണ് അതിനാൽ ടി സ്ക്വയർ പ്ലസ് 1 സൃഷ്ടിച്ച ഐഡിയലിൽ തീർച്ചയായും ടി സ്ക്വയർ പ്ലസ് 1 അടങ്ങിയിരിക്കുന്നു തീർച്ചയായും ടി അടങ്ങിയിരിക്കുന്നു സ്ക്വയേർഡ് പ്ലസ് 1 അതിനാൽ ഇതാണ് ടി സ്ക്വയർ പ്ലസ് 1 അടങ്ങിയിരിക്കുന്ന വ്യക്തമായ രണ്ട് ഐഡിയലുകൾ ഇപ്പോൾ ഇത് വിഭജിക്കുന്ന മറ്റേതെങ്കിലും fs ഉണ്ടോ തീർച്ചയായും ടി പ്ലസ് ഐ ഉള്ള ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് ti ടി സ്ക്വയർ പ്ലസ് i ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ti ഉണ്ടാക്കുന്ന ഐഡിയലിൽ ടി സ്ക്വയർ പ്ലസ് 1 അടങ്ങിയിരിക്കുന്നു t i ഉണ്ടാക്കുന്ന ഐഡിയലിൽ ടി സ്ക്വയർ പ്ലസ് 1 അടങ്ങിയിരിക്കുന്നു അതിനാൽ ടി സ്ക്വയർ പ്ലസ് 1 ഉൾക്കൊള്ളുന്ന നാല് ഐഡിയലുകൾ ഉണ്ട് അതിനാൽ R ൽ നാല് ഐഡിയലുകൾ ഉണ്ട് അവ ഏതൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്ന ഇവ 0 ഐഡിയലാണ് അതിനാൽ ഞാൻ ഇവ എഴുതിയിട്ട് Ct യിലെ ഐഡിയലുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം തീർച്ചയായും R ടി ബാർ മൈനസ് i ടി ബാർ പ്ലസ് i എന്നിവയുണ്ട് ഇവ R ലെ ഐഡിയലുകൾ ആണ് സി ടിയിലെ ഐഡിയലുകൾ എന്തൊക്കെയാണ് ഇത് പൂജ്യത്തെ സൂചിപ്പിക്കുന്നു ഇത് ടി സ്ക്വയർ പ്ലസ് ഐഡിയലിനെ സൂചിപ്പിക്കുന്നു ക്ഷമിക്കണം ഇത് ബ്രാക്കറ്റല്ല ടി സ്ക്വയർ പ്ലസ് 1 സൃഷ്ടിച്ച ഐഡിയലാണിത് അതിനാൽ ഇത് ടി സ്ക്വയർ പ്ലസ് 1 സൃഷ്ടിച്ച ഐഡിയലിനെ സൂചിപ്പിക്കുന്നു ടി സ്ക്വയേർഡ് പ്ലസ് 1 ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ ഐഡിയലാണിത് ഇത് മാപ് ഫൈയുടെ കേർണലാണ് അതിനാൽ ഈ ഐഡിയലുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഐഡിയലാണിത് അതിൽ ടി സ്ക്വയേർഡ് പ്ലസ് 1 അടങ്ങിയിരിക്കുന്നു അത് R നേ സൂചിപ്പിക്കുന്നു അത് 0 ഐഡിയലാണ് ടി സ്ക്വയർ പ്ലസ് 1 ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ഐഡിയൽ Ct ആണ് അത് R ൻറെ ഏറ്റവും വലിയ ഐഡിയലാണ് സി ടിയിലെ ഐഡിയൽ t i സൃഷ്ടിച്ചതാണ് അത് ടി ബാർ മൈനസ് i നെ സൂചിപ്പിക്കുന്നു ഐഡിയൽ ti ടി ബാർ പ്ലസ് i നെ സൂചിപ്പിക്കുന്നു അതിനാൽ R ന് നാല് ഐഡിയലുകൾ ഉണ്ട് അതിനാൽ R എന്നത് തീർച്ചയായും അനന്തമായ ഒരു വലയമാണ് R ന് അനന്തമായ നിരവധി ഘടകങ്ങളുണ്ട് പക്ഷേ ഇതിന് നാല് ഐഡിയലുകൾ ഉണ്ട് അതിനാൽ R റിംഗിലെ ആശയങ്ങൾ മനസിലാക്കാൻ ബൈജക്ടീവ് കറസ്പോണ്ടൻസ് ഫലത്തിന്റെ ഒരു പ്രയോഗമാണ് ഇത് അതായത് സി ടി മോഡ് ടി സ്ക്വയേർഡ് പ്ലസ് 1 നമ്മൾ ബൈജക്ടീവ് കറസ്പോണ്ടൻസ് ഉപയോഗിച്ചു തുടർന്ന് സി ടിയിലെ ഐഡിയലുകളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് R ന് കൃത്യമായി നാല് ഐഡിയലുകൾ ഉണ്ടെന്ന നിഗമനത്തിൽ എത്തിച്ചു അതിനാൽ ഈ ഉദാഹരണങ്ങളും പ്രശ്നങ്ങളും വളയങ്ങളും കോഷ്യന്റ് വളയങ്ങളും ഐഡിയലുകളും ഉപയോഗിച്ച് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നിങ്ങൾക്ക് ചില ആശയങ്ങൾ നൽകിയെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ കോഷ്യന്റ് വളയങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരും കൂടാതെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി തരാം